കോണിക് സെക്ഷൻസ് III എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഞാൻ ഐഐടി ഖരഗ്പൂരിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള രാജരാം ലക്കരാജു നമ്മൾ മൊഡ്യൂൾ 2 പഠിച്ചുകൊണ്ടു ഇരിക്കുകയാണ് അതിൽ നമ്മൾ 11 ആം ലെക്ചർ നമ്പറിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് കോണിക് വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ഒന്നാമതായി ഒരു കോണിക് വിഭാഗം എന്താണെന്ന് നോക്കാം നമുക്ക് ഒരു റൈറ്റ് സർക്കുലർ കോൺ എടുക്കാം നമ്മൾ അഗ്രത്തിൽ നിന്ന് ഒരു രേഖ വരയ്ക്കുകയാണെങ്കിൽ അത് ബേസ് ഉമായി ലംബമായ ഒരു രേഖ സൃഷ്ടിക്കുന്നു നമുക്ക് അത് വരയ്ക്കാം അതിനാൽ ഞാൻ ഒരു കോൺ എടുക്കുമ്പോൾ സാധാരണയായി ഡ്രോയിംഗ് പ്രാക്ടീസിൽ ഒബ്ജക്റ്റിന് പിന്നിൽ എന്തെങ്കിലും കാണാനാകാത്തപ്പോഴെല്ലാം നമ്മൾ അത് ഡാഷ് ചെയ്ത വരികളിലൂടെ കാണിക്കുന്നു അതിനാൽ ഇത് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിലെ ഒരു സ്റ്റാൻഡേർഡ് കൺവെൻഷനാണ് നമ്മൾ ഒരു കോണിന്റെ മുൻവശത്തെ കാഴ്ചയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ വരി ദൃശ്യമാണ് അതൊരു അതാര്യമായ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇത് ദൃശ്യമാകില്ല അത് സുതാര്യമാണെങ്കിൽ അത് ദൃശ്യമായേക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഡാഷ് ചെയ്ത വരികളിലൂടെ നമ്മൾ ഇത് കാണിക്കും അതിനാൽ അദൃശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളും വസ്തുവും നിലവിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡാഷ് ചെയ്ത വരികളിലൂടെ കാണിക്കുന്നു ഇതാണ് അഗ്രം അഗ്രത്തിൽ നിന്ന് നമ്മൾ ഒരു ലംബ രേഖ വരയ്ക്കുകയാണെങ്കിൽ അത് ഡാഷ് ഡോട്ട് കൺവെൻഷൻ പ്രതിനിധീകരിക്കുന്ന മധ്യരേഖകളായിരിക്കും അതിനാൽ ഈ രേഖ ബേസ് ന് ലംബമായിരിക്കും അതായത് ഇത് 90 ഡിഗ്രിയാണ് അത്തരം കോണുകളെ റൈറ്റ് സർക്കുലർ കോണുകൾ എന്ന് വിളിക്കുന്നു ചില സന്ദർഭങ്ങളിൽ നോൺ റൈറ്റ് സർക്കുലർ കോൺ ആയിരിക്കാം അതിനർത്ഥം നമ്മൾ ഒരു വൃത്തം വരക്കുകയാണെങ്കിൽ നമ്മുടെ കോൺ ഇന്റെ ബേസ് ആ രീതിയിൽ ആയിരിക്കാം അതിനാൽ നമ്മൾ അഗ്രത്തെ സർക്കിളിന്റെ മധ്യഭാഗത്തേക്ക് ചേർക്കുകയാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കില്ല ഇത് ആംഗിൾ ആൽഫയാകുന്നു ഇത്തരത്തിലുള്ള കോണുകളെ നോണ് റൈറ്റ് സർക്കുലർ കോൺ കൾ എന്ന് വിളിക്കുന്നു ഇവയെ സാധാരണയായി കോണുകൾ എന്ന് വിളിക്കുന്നു നമുക്ക് ഒരു പ്ലെയിൻ എടുക്കാം കോണിലൂടെ കത്തി നീക്കുന്നതുപോലെയുള്ള ഒരു ഭാഗത്ത് നമുക്ക് കോൺ മുറിക്കാൻ കഴിയും അതിനാൽ തിരശ്ചീന ദിശയിൽ കോൺ അരിഞ്ഞുകൊണ്ട് നമുക്ക് ഇത് നിർമ്മിക്കാൻ കഴിയും അതുപോലെ തിരശ്ചീന സ്ഥാനത്ത് നിന്ന് ഒരാൾക്ക് ഈ കോൺ മുറിക്കാൻ കഴിയും അതായത് ഒരു ചെരിവ് ആംഗിൾ ആൽഫ ആകുന്നു പിന്നെ നമുക്ക് ഒരു സ്ലൈസ് ഉണ്ടാക്കാം രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ മുകളിലെ ഭാഗം നീക്കം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത തരം കർവുകൾ ലഭിക്കും ഉദാഹരണത്തിന് ഒരേ റൈറ്റ് സർക്കുലർ കോൺ ൽ നമ്മൾ ഒരു കട്ട് വിഭാഗം നിർമ്മിക്കുകയാണെങ്കിൽ സാധാരണയായി കട്ട് വിഭാഗങ്ങൾ കാണിക്കും നമ്മൾ അരിഞ്ഞത് പോലുള്ള എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നീളമുള്ളതും കട്ടിയുള്ളതുമായ രേഖകളാൽ കാണിക്കുന്നു ഒരു സെക്ഷൻ ഉണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു സാധാരണയായി ഇത് അവസാനിക്കുന്ന ഇടത്തു നമ്മൾ x x അടയാളം പോലെ കാണിക്കുന്നു അതിനർത്ഥം ഇത് ഒരു തരം പ്ലെയിൻ ആണ് അത് നമ്മൾ അരിഞ്ഞത് കുറച്ചു ഭാഗം മുറിച്ച് ആ കാഴ്ച കാണിക്കാൻ പോകുന്നു അതിനാൽ മുകളിൽ നിന്ന് ഒരു കാഴ്ചയിൽ നമ്മൾ ഒരു കോൺ നോക്കുകയാണെങ്കിൽ കട്ട് വിഭാഗങ്ങളൊന്നുമില്ലെങ്കിൽ ഒരുപക്ഷേ അത് ഒരു വൃത്തം പോലെ കാണപ്പെടാം മുകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കാഴ്ചകളെ നമ്മൾ ടോപ് വ്യൂ എന്ന് വിളിക്കുന്നു ഈ കാഴ്ചകളെക്കുറിച്ച് പിന്നീടുള്ള ഭാഗങ്ങളിലും നമ്മൾ പഠിക്കും കോണിന്റെ അറ്റം ഇത് പോലെ ഇരിക്കും നമ്മൾ മുൻവശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കും മുകളിൽ നിന്ന് ഒരു കോൺ നോക്കുകയാണെങ്കിൽ അത് ഒരു വൃത്തം പോലെ കാണപ്പെടാം അതിനാൽ നമുക്ക് x x എന്ന വിഭാഗം എടുക്കാം നമ്മൾ അതിനെ അരിഞ്ഞ് ആ മുകളിലെ ഭാഗം നീക്കം ചെയ്യുകയും ബാക്കിയുള്ള ഭാഗം അവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ കോണിന്റെ ടോപ് വ്യൂ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഈ ഭാഗം നമ്മൾ ഒരു വൃത്തം പോലെ കാണുന്നു അതിനാൽ സാധാരണയായി നമ്മൾ ഹാഷ് രേഖ ഉപയോഗിച്ച് കട്ട് സെക്ഷൻ കാണിക്കുന്നു ഇത് കട്ട് ചെയ്യാത്ത വിഭാഗമാണ് എന്നാൽ മെറ്റീരിയൽ നിലവിലുണ്ട് അതിനാൽ വീണ്ടും നമ്മൾ ഒരു വലിയ വൃത്തം കാണും അതിനാൽ ഈ മുഴുവൻ വൃത്താകൃതിയിലുള്ള അടിതറയിൽ നമ്മൾ ഒരു സർക്കിളും കട്ട് വിഭാഗവും കാണുന്നു നമ്മൾ ഭാഗം നീക്കം ചെയ്യുകയും ഹാഷ് ലൈനുകൾ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു സർക്കിളായി കാണുന്നു അതിനാൽ ഒരു തിരശ്ചീന തലം ഉപയോഗിച്ച് റൈറ്റ് സർക്കുലർ കോണിനെ നമ്മൾ മുറിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇവിടെ സർക്കിളായി കാണും അതിനാൽ നമുക്ക് ഒരു ചെരിഞ്ഞ സെക്ഷൻ നോക്കാം റൈറ്റ് സർക്കുലർ കോൺ ൽ വീണ്ടും നമ്മൾ മറ്റൊരു കട്ട് സെക്ഷൻ എടുക്കുന്നു ഇതാണ് സെന്റർരേഖ ഇതാണ് ആരം നമ്മുടെ കൺവെൻഷൻ ഡ്രോയിംഗിലായതിനാൽ ഇതിനെ എച്ച് എന്ന് വിളിക്കാം ആ വസ്തുവിന്റെ ബാഹ്യഭാഗം നമ്മൾ കാണിക്കും നമുക്ക് ഇതിനെ എച്ച് എന്ന് വിളിക്കാം ഈ ആരം അല്ലെങ്കിൽ വ്യാസം നമുക്ക് കുറച്ച് ആരം കാണിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഒരു ആംഗിൾ ആൽഫ ഉണ്ടാക്കുന്ന ഒരു ചെരിഞ്ഞ വിഭാഗം എടുക്കുകയാണെങ്കിൽ ഈ മുകളിലെ ഭാഗം നീക്കംചെയ്ത് ഈ ഭാഗം ദൃശ്യവൽക്കരിക്കുക ഈ ചുവടെയുള്ള ഭാഗം മുകളിലെ കാഴ്ചയിൽ ഒരു വൃത്തം പോലെ കാണപ്പെടുന്നു അതിനാൽ ഈ സർക്കിളിനെ ഈ വരികളാൽ പരിമിതപ്പെടുത്തും ഈ പോയിന്റ് ഇവിടെ പൊരുത്തപ്പെടുന്നു ഈ പോയിന്റ് അവിടെ പൊരുത്തപ്പെടുന്നു ഇത് മുകൾ ഭാഗവും ഇത് താഴത്തെ ഭാഗവും ആകുന്നു അതിനാൽ നമ്മൾ ഈ സർക്കിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒന്ന് നമ്മൾ കാണും ഒരു വലിയ അക്ഷവും ചെറിയ അക്ഷവുമുള്ള ദീർഘവൃത്തത്തെ നമ്മൾ സാധാരണയായി വിളിക്കാറുള്ള അണ്ഡവൃത്തം ആണിത് അതിനാൽ നമുക്ക് ഏതെങ്കിലും ചെരിഞ്ഞ സെക്ഷൻ തലം ഉണ്ടെങ്കിൽ അത് ഈ കോണിന്റെ ഇരുവശത്തും രണ്ട് പോയിന്റുകളായി മുറിക്കേണ്ടതുണ്ട് നമുക്ക് പോയിന്റ് എ പോയിന്റ് ബി എന്നിങ്ങനെ ഈ പോയിന്റുകളെ വിളിക്കാം അതിനാൽ മുഴുവൻ ചുറ്റളവിലും നമുക്ക് ഒരു ചരിവുണ്ട് അതിനാൽ ചരിവിന്റെ ഇരുവശത്തും അത് ഇവിടെയും ഇവിടെയും വിഭജിക്കാൻ പോകുന്നു മുകളിലെ ഭാഗം നീക്കം ചെയ്യകയാണെങ്കിൽ ശേഷിക്കുന്ന ഭാഗം ഒരു അണ്ഡവൃത്തം പോലെ നമ്മൾ കാണുന്നു അതിനാൽ അതേ റൈറ്റ് സർക്കുലർ കോൺ ൽ നമുക്ക് അടുത്ത ചെരിഞ്ഞ വിഭാഗം നോക്കാം ഇപ്പോൾ ഈ കേസിൽ സമാന്തരമായി നമ്മൾ ഒരു കട്ട് സെക്ഷൻ ഉണ്ടാക്കുന്നു അതിനാൽ അതിനു സമാന്തരമായി നീങ്ങുകയും ഒരു കട്ട് സെക്ഷൻ ഉണ്ടാക്കുകയും വേണം അതിനാൽ ഈ വരി സമാന്തരമാണെങ്കിൽ ഒരു സർക്കിളിലെ പ്രൊജക്റ്റ് ചെയ്ത ഭാഗം ഒരു പരാബോളയായി നമ്മൾ കാണുന്നു അതിനാൽ നമ്മൾ ഇതിനെ നീക്കം ചെയ്യുന്നു അതിനാൽ ഈ ഭാഗം വരെ നമ്മൾ ഇത് ഒരു പരാബോളയായി കാണുന്നു ഇങ്ങനെയാണ് നമ്മൾ ഒരു പരാബോള നിർമ്മിക്കുന്നത് അതിനാൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം x ആക്സിസ് ആ y ആക്സിസിന് പോലെയാണെങ്കിൽ ഈ x ആക്സിസും y ആക്സിസും ഫ്ലിപ്പുചെയ്യുക അപ്പോൾ നമ്മൾ ഒരു പരാബോള പോലുള്ള ഒന്ന് കാണും ആ രീതിയിൽ x ആക്സിസും y ആക്സിസും നമ്മൾ കൃത്യമായി നീക്കം ചെയ്യുന്ന സ്ഥലത്തെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ അതിനു ചുറ്റും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇതാണ് കോർഡിനേറ്റ് അക്ഷത്തിന്റെ ഉത്ഭവം അപ്പോൾ നമ്മുടെ പരാബോള ഈ പോയിന്റിലൂടെ കടന്നുപോകുന്നു ഒറിജിൻ എവിടെയെങ്കിലും സ്ഥിതിചെയ്യുന്നുവെങ്കിൽ നമ്മൾ ആ രീതിയിൽ പരാബോള കാണും നമ്മൾ ഓർക്കേണ്ട ആദ്യത്തെ കാര്യം ചരിഞ്ഞ അരികിൽ നിന്ന് സമാന്തര ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു കട്ട് സെക്ഷൻ ഉണ്ടാക്കി മുകളിലെ ഭാഗം നീക്കംചെയ്യുക എന്നതാണ് X y എന്നിവയുടെ കോർഡിനേറ്റ് അക്ഷത്തിൽ അവശേഷിക്കുന്ന ഭാഗം ഒരു പരാബോളയായി നമ്മൾ കാണുന്നു നമ്മൾ മറ്റ് ചെരിഞ്ഞ വിഭാഗം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഹൈപ്പർബോളിക് കർവുകൾ എന്ന് പേരുള്ള എന്തെങ്കിലും നമ്മൾ കാണുന്നു അതിനാൽ സ്ലൈസ് ആംഗിളിനെയും സ്ഥാനത്തെയും അടിസ്ഥാനമാക്കി നമുക്ക് വ്യത്യസ്ത കോണിക് കർവുകൾ ലഭിക്കും അതാണ് നമ്മൾ കോണിക്സ് എന്ന് വിളിക്കാനുള്ള ഒരു കാരണം ഇവ കോൺസ്റ്റ്ക്ടർസ് ആയതിനാൽ നമ്മൾ അവരെ കോണിക് കർവുകൾ എന്ന് വിളിക്കുന്നു വിവിധ വിഭാഗങ്ങൾ കോണിൽ നിന്ന് അരിഞ്ഞാണ് സൃഷ്ടിക്കുന്നത് അതിനാൽ അത്തരം വിഭാഗങ്ങളെ കോണിക് വിഭാഗങ്ങൾ എന്ന് വിളിക്കുന്നു എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനുകളിൽ ഇവ വളരെ ശക്തമായ കർവുകളാണ് ഉദാഹരണത്തിന് ഏതെങ്കിലും മെഷീൻ ഗിയർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഗിയറുകൾ ഓട്ടോമൊബൈലുകൾ സൈക്കിളുകൾ മോട്ടോർ വാഹനങ്ങൾ അല്ലെങ്കിൽ കപ്പി ഷാഫ്റ്റ് തരത്തിലുള്ളവയെ നോക്കാം സർക്കിളുകൾ വളരെ സാധാരണ സവിശേഷതകളാണ് അതിനാൽ ഒരു റൈറ്റ് സർക്കുലർ കോൺ നെ തിരശ്ചീനമായി മുറിച്ചാൽ നമുക്ക് വൃത്തം ലഭിക്കും പ്ലാനറ്ററി ഗിയറുകൾക്കും ഓഫ് സെന്റ്റെർഡ് തരത്തിലുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റങ്ങൾക്കും എലിപ്സ് അഥവാ അണ്ഡവൃത്തം വളരെ സാധാരണമാണ് അതിനാൽ ഇവിടെ നമുക്ക് ആ പ്ലാനറ്ററി ഗിയറിലേക്ക് നോക്കാം അതിനാൽ ഇവിടെ ഈ വൃത്താകൃതിയിലുള്ള ഗിയർ ഉപയോഗിച്ച് ഡ്രൈവിംഗ് ചലനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിയറിലേക്കും ആ ഗിയറിലേക്കും പവർ കൈമാറാൻ നമുക്ക് കഴിയും ഈ പ്ലാനറ്ററി ഗിയർ തരത്തിലുള്ള ക്രമീകരണത്തിലൂടെയും നമുക്ക് ഇത് സാധ്യമാണ് അതിനാൽ ഈ പ്ലാനറ്ററി ഗിയർ ചിലപ്പോൾ ഇവിടെ വരുന്നു ചിലപ്പോൾ വലിയ ചെറിയ അക്ഷങ്ങളിലൂടെ മുകളിലേക്ക് പോയി ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് പവർ എത്തിക്കുന്നു ഈ വൃത്താകൃതിയിലുള്ള എലിപ്റ്റിക്കൽ തരത്തിലുള്ള ഗിയറുകളിൽ നിന്ന് നമുക്ക് പവർ ട്രാൻസ്മിഷൻ ലഭിക്കുന്ന രീതിയാണിത് എന്തെങ്കിലും രൂപകൽപ്പന ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഉൽപാദന ലൈനിനായി അയയ്ക്കുന്നതിനോ ആ ഗിയറുകളുടെ ഉള്ളിൽ അണ്ഡവൃത്തംനിർമ്മിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ആവശ്യത്തിനായി ഒരു അണ്ഡവൃത്തമോ വൃത്തമോ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ഗണിതശാസ്ത്രപരമായും നമുക്ക് x2a2y2b21 ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാം ഈ രീതിയിൽ ജ്യാമിതീയമായി നമുക്ക് നിർമ്മിക്കാൻ കഴിയും പക്ഷേ മെഷീനിംഗും മറ്റ് കാര്യങ്ങളും നടക്കുമ്പോൾ മെക്കാനിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു ലോഹ സ്ഥലത്ത് ഈ അണ്ഡവൃത്തം നിർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ അവിടെ നമ്മൾ നേരിട്ട് ഈ പേന പേപ്പർ തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല മെക്കാനിക്കൽ ക്രമീകരണം അത്തരത്തിലുള്ളതായിരിക്കണം ഒടുവിൽ ഒരു അണ്ഡവൃത്തം നിർമ്മിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ മിനി ഡ്രാഫ്റ്റർ എടുക്കുകയാണെങ്കിൽ മിനി ഡ്രാഫ്റ്ററിന്റെ ഒരു ഭാഗം ഒരു വശത്ത് ഉറപ്പിക്കുകയും ഒരു ഭാഗം ശക്തമാക്കുകയും ചെയ്യുന്നു ഈ മെക്കാനിക്കൽ ഡ്രാഫ്റ്റർ നിങ്ങൾ എവിടെ നീക്കിയാലും അത് എല്ലായ്പ്പോഴും ലംബവും തിരശ്ചീനവുമായ വരികൾ നിർമ്മിക്കുന്നു അതിനാൽ ഈ ആവശ്യത്തിനായി ഇത്തരത്തിലുള്ള ലംബവും തിരശ്ചീനവുമായ വരികൾ നിർമ്മിക്കാൻ നമ്മൾ ഒരു ഫോർ ബാർ സംവിധാനം ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ തിരശ്ചീന ലംബ രേഖകൾ വരയ്ക്കുന്നില്ലെങ്കിലും നമ്മുടെ മെക്കാനിക്കൽ ഉപകാരണങ്ങളായ ബാറുകളും ലിങ്കേജുകളും എല്ലായ്പ്പോഴും ഈ തിരശ്ചീന ലംബ രേഖകൾ നിർമ്മിക്കുന്ന തരത്തിൽ നീങ്ങുന്നു അതുപോലെ നിങ്ങൾ ഈ ഉപകരണങ്ങൾ മെഷീൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഇത്തരത്തിലുള്ള അണ്ഡവൃത്തം ആവശ്യമാണെങ്കിൽ ഈ അണ്ഡവൃത്തങ്ങളും സർക്കിളുകളും നിർമ്മിക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കണം ഈ കോണിക്ക് വിഭാഗങ്ങൾക്കായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ് കെട്ടിട താഴികക്കുടങ്ങളുടെ നിർമ്മാണം പോലുള്ള വിവിധ ആപ്ലിക്കേഷനുകൾക്ക് ഒരു വൃത്തം അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ തരത്തിലുള്ള കർവുകൾ ആവശ്യമാണ് അതിനാൽ നമ്മൾ ഉപരിതലത്തിന്റെ പുറംഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് ഒരു അണ്ഡവൃത്തമുണ്ടാക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഇത് ഒരു അണ്ഡവൃത്തം ആകുന്നത് കാരണം ഇവിടെ വലിയ അക്ഷവും ചെറിയ അക്ഷവും വ്യത്യസ്ത നീളമുള്ളവയാണ് അതിനാൽ അതൊരു അണ്ഡവൃത്തമാകാൻ കാരണമാകുന്നു ഒരു ദന്തരോഗവിദഗ്ദ്ധനെ സംബന്ധിച്ചിടത്തോളം പല്ലുകൾ കൃത്രിമ ഇംപ്ലാന്റുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി ഈ പല്ലുകളുടെ സ്ഥാനം കൃത്യമായി എവിടെയാണ് പല്ലുകൾ ക്രമീകരിക്കേണ്ട രീതി എന്നിവ അദ്ദേഹം രൂപകൽപ്പന ചെയ്യണം ഈ ആവശ്യത്തിനായി സാധാരണയായി നമ്മുടെ മനുഷ്യ വായ വ്യത്യസ്ത വലിയ അക്ഷം ചെറിയ അക്ഷം ഉള്ള അണ്ഡവൃത്തകൃതിയിലാണ് അതിനാൽ ഇവിടെ ഡാഷ് ചെയ്ത വരികളിലൂടെ അണ്ഡവൃത്തം കാണിക്കുന്നു വലിയ അക്ഷം ഈ ദൈർഘ്യമേറിയതും ചെറിയ അക്ഷം ഈ ഹ്രസ്വമായതുമാണ് ആ പ്രധാന അക്ഷത്തിന് നോർമലായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ പല്ലുകൾ ക്രമീകരിക്കും അതിനാൽ ഒന്നാമതായി ഒരു ദന്തരോഗവിദഗ്ദ്ധൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ജ്യാമിതീയ നിർമ്മാണത്തിലൂടെ പല്ലുകൾ എന്തായിരിക്കണം കൃത്യമായി എവിടെയാണ് സ്ഥിതിചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം അതിനാൽ ആ ആവശ്യത്തിനായി ഒന്നാമതായി ഒരാൾ ഒരു അണ്ഡവൃത്തം നിർമ്മിക്കണം ഇതാണ് അനുയോജ്യമായ കേസ് അതുപോലെ നിരീക്ഷണ ക്യാമറകൾ സിസിടിവി ക്യാമറകൾ സ്പൈ ക്യാമറകൾ എന്നിവയിൽ ഒബ്ജക്റ്റിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശകിരണങ്ങൾ ഒടുവിൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ രണ്ട് പോയിന്റുകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു അതിനാൽ ഈ പ്രകാശകിരണങ്ങളെല്ലാം വന്ന് ഉപരിതലത്തിൽ തട്ടുന്നു ആന്തരിക പ്രതിഫലനങ്ങൾ സംഭവിക്കുകയും ഒടുവിൽ അവ ഈ വരിയിലെ ഒന്നോ രണ്ടോ പോയിന്റുകളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യും നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ കർവ് ഒരു അണ്ഡവൃത്തമായി മാറുന്നു അതിനാൽ ഇതിന് എല്ലായ്പ്പോഴും രണ്ട് കേന്ദ്രങ്ങളുണ്ട് എഫ് എഫ് പ്രൈം അതിനാൽ ഈ കിരണങ്ങളെല്ലാം ആന്തരികമായി പ്രതിഫലിക്കുന്നു ഒടുവിൽ ഈ പോയിന്റുകളിൽ ഒത്തുചേരുന്നു അല്ലെങ്കിൽ നമുക്ക് രണ്ട് സ്ഥലങ്ങളിൽ പ്രകാശ സ്രോതസ്സുകളുണ്ടെങ്കിൽ അവ റേഡിയൽ ദിശകളിലൂടെ പുറത്തുവരും എന്നാൽ ആന്തരികമായി പ്രതിഫലിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഒടുവിൽ എഫ് എഫ് പ്രൈം F F prime എന്നീ രണ്ട് പോയിന്റുകൾ കേന്ദ്രീകരിക്കും നിരീക്ഷണത്തിനായി ക്യാമറകൾക്കും നമുക്ക് ഈ എലിപ്റ്റിക്കൽ തരം വിഭാഗങ്ങൾ ആവശ്യമാണ് നമുക്കു സിഗ്നൽ പ്രോസസ് സിംഗ് നോക്കാം സിഗ്നൽ പ്രോസസ്സിംഗിനായി ഈ ഉപഗ്രഹങ്ങൾ തരംഗങ്ങൾ അയക്കപെടുകയോ വെളിപ്പെടുത്തപെടുകയോ ചെയ്യുന്നു പരാബോളിക് ആകൃതിയിലുള്ള ഈ വിഭവം ആന്റിന മിററുകളിൽ തട്ടുന്ന സമാന്തര ബീമുകളായിരിക്കാം ഒടുവിൽ ഇവ പ്രതിഫലിപ്പിക്കുകയും ഒരു പോയിന്റിലേക്ക് സംയോജിക്കുകയും ചെയ്യുന്നു അത് സിഗ്നലിനെ ശക്തിപ്പെടുത്തുന്നു അവിടെ നിന്ന് നമ്മൾ അത് ശേഖരിച്ച് ഡാറ്റ വിശകലനത്തിനോ ടിവിക്കോ കൈമാറുന്നു അതിനാൽ ഉദാഹരണത്തിന് ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന നമ്മളുടെ സാധാരണ ഡിഷ് ആന്റിന നോക്കാം ഈ മുഴുവൻ കാര്യങ്ങളും ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കപെടും അതിനാൽ ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സമാന്തര ബീമുകൾ ഈ പരാബോളിക് മിററിൽ സ്പർശിക്കുകയും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും അവിടെ നിന്ന് ഒടുവിൽ അവ ഫോക്കസ് എന്ന് വിളിക്കുന്ന ഒരു ഫോക്കൽ പോയിന്റിലേക്ക് കൂടുന്നു ഈ പോയിന്റിനെ പരാബോളയുടെ വെർട്ടെക്സ് എന്ന് വിളിക്കുന്നു ഇത് സംയോജിപ്പിച്ചുകഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കുകയും മോഡുലേറ്റ് ചെയ്യുകയും ഒടുവിൽ സിഗ്നൽ പ്രോസസ്സിംഗിനായി അയയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത്തരത്തിലുള്ള സിഗ്നൽ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനുകൾക്ക് നമ്മുടെ പരാബോളകൾ പ്രധാനമായും ഉപയോഗപ്രദമാണ് അതുപോലെ നമുക്ക് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് നോക്കാം ഇവിടെ ഈ നദി സ്ട്രീംവൈസ് ദിശയിലേക്ക് ഒഴുകുന്നു അതിന് മുകളിൽ ഒരു പാലമുണ്ട് സാധാരണയായി ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൽ കേബിളിന്റെ ലോഡ് വിതരണം ചെയ്യേണ്ടതുണ്ട് അതിനാൽ പിണ്ഡമോ തൂണുകളോ ഉണ്ടാകും കൂടാതെ ഒരു കാന്റിലിവർ തരത്തിലുള്ള സസ്പെൻഷൻ ബ്രിഡ്ജുകൾ ഉണ്ടാകും അവ കയറുമായി ബന്ധിപ്പിക്കും ഈ വയറുകളിൽ മുഴുവൻ ഭാരം താങ്ങി നിർത്തിവയ്ക്കും സാധാരണയായി ഈ വയറുകൾ പരാബോളിക് തരത്തിലുള്ള പാത ഉണ്ടാക്കുന്നു അതിനാൽ പാലം നിർമ്മാണത്തിനും ഈ പരാബോളിക് കർവുകൾ നിർമ്മിക്കുന്നതിനും ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഈ കയറിന്റെ നീളം എന്തായിരിക്കണമെന്ന് നിർണ്ണയിക്കുന്നതിനും വളരെ ആവശ്യമാണ് നമ്മൾ പരാബോള നിർമ്മിച്ചില്ലെങ്കിൽ ലോഡ് വിതരണത്തിന് എത്ര ദൈർഘ്യമുണ്ടെന്ന് അറിയാൻ നമുക്ക് കഴിയില്ല അതുപോലെ വാസ്തുവിദ്യയിലും ഈ പരാബോളകൾ മികച്ച ആകർഷണീയത നൽകുന്നു അതിനാൽ ഇവിടെ ഈ താഴികക്കുടങ്ങൾക്കായി ഇത്തരത്തിലുള്ള പരാബോളിക് നിർമ്മാണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ പരാബോളകൾ ചിലപ്പോൾ ലംബ ദിശയിലും ചെരിഞ്ഞേക്കാം അത് yx2 തരത്തിലുള്ള പരാബോളകൾക്ക് തുല്യമോ അല്ലെങ്കിൽ xy2 തരത്തിലുള്ള പരാബോളകൾക്ക് തുല്യമോ ആയിരിക്കില്ല എന്നാൽ ഓഫ് കേന്ദ്രീകൃതവും ചരിഞ്ഞതുമായ പരാബോളകൾ നമുക്ക് കാണാനാകും ഈ കാലങ്ങളിൽ ആളുകൾ ലക്ഷ്യമിടുന്നത് ഹരിത ഊർജ്ജമാണ് ഊർജ്ജ വിളവെടുപ്പിനായി നമ്മൾ സൌരോർജ്ജം ശേഖരിക്കുകയോ പാനലുകൾ ചൂടാക്കുകയോ ഖരാവസ്ഥയിലുള്ള ഉപകരണങ്ങളിലൂടെ സംയോജിപ്പിക്കുകയോ ചെയ്യണം ഈ ഫോട്ടോണിക് ഊർജ്ജം പരിവർത്തനം ചെയ്യുകയും അവസാനം കൈമാറ്റം ചെയ്യുകയും വേണം അല്ലെങ്കിൽ ഒരുപക്ഷേ സൌരോർജ്ജ ചൂടാക്കൽ പ്രയോഗങ്ങൾക്കായി നിങ്ങൾ ഈ സൌരോർജ്ജ ബീമുകൾ ശേഖരിക്കുകയും വെള്ളം കടന്നുപോകുന്ന ഒരു പോയിന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങനെ താപനില വർദ്ധിപ്പിക്കുകയും ഒടുവിൽ ജലത്തെ ചൂടാക്കുകയും ചെയ്യും ഈ ആവശ്യത്തിനായി ആളുകൾ പരാബോളിക് തരത്തിലുള്ള കണ്ണാടികൾ ഉപയോഗിക്കുന്നു അതുപോലെ നിർദ്ദിഷ്ട ആപ്ലിക്കേഷൻ ടാർഗെറ്റുചെയ്യുന്നതിന് ഉദാഹരണത്തിന് ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അത് ഒരു ബോംബ് പുറപ്പെടുവിക്കുന്നു ഇത് സാധാരണയായി പരാബോളിക് ഫോർമാറ്റിൽ ആയിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷേ വെള്ളപ്പൊക്ക മേഖലകളിലേക്ക് ഭക്ഷ്യ ഉൽപന്നങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്നു ഈ ഹെലികോപ്റ്റർ ഏകീകൃത വേഗതയിൽ സഞ്ചരിക്കുകയും അത് ഒരു പാക്കറ്റ് പുറത്തിറക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് പരാബോളിക് ഫോർമാറ്റിലാണ് പോകുന്നത് അവസാനമായി ഇതാണ് ഒറിജിൻ കൂളിംഗ് ടവറുകളിലും ഡ്രാഫ്റ്റ് ടവറുകളിലും ഹൈപ്പർബോളയ്ക്ക് പ്രത്യേക ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഇവിടെ താപ നിലയങ്ങൾക്ക് സമീപം ടർബൈൻ ബ്ലേഡുകളെ നയിക്കുന്ന നീരാവി ഘനീഭവിക്കേണ്ടതുണ്ട് ആ നീരാവി ഘനീഭവിപ്പിക്കുന്നതിനോ തണുപ്പിക്കുന്നതിനോ നമുക്ക് ചില്ലിംഗ് ടവറുകളും ചില്ലിംഗ് കുളങ്ങളും ഉണ്ടാകും ഈ ഹൈപ്പർബോളിക് തരത്തിലുള്ള ടവറുകളിൽ നിന്ന് ചൂടുവെള്ളം ഒഴിക്കും ചൂടുവെള്ളം എല്ലാ വഴികളിലൂടെയും ഇറങ്ങുകയും ശീതീകരിച്ച വായു മുകളിലേക്ക് പോകുകയും ചെയ്യുന്നു അതിനു വേണ്ടി ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് നിർമ്മിക്കും ആ ആവശ്യത്തിനായി സാധാരണയായി ഹൈപ്പർബോളകൾ വളരെ ഉപയോഗപ്രദമാണ് അതിനാൽ ഇത് തെർമൽ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന കൂളിംഗ് ടവർ ആണ് ബാഹ്യ കർവ് ഹൈപ്പർബോളയുടെ ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇതും ഹൈപ്പർബോളയാണ് ഇതും ഹൈപ്പർബോളയാണ് മധ്യരേഖ സാധാരണയായി ഡയറക്ട്രിക്സ് ലൈനുകൾ എന്ന് വിളിക്കുന്നു അത് പിന്നീട് പഠിക്കും അതുപോലെ ദൂരദർശിനി പ്രയോഗങ്ങൾക്കും ഒരു പദ്ധതിയെക്കുറിച്ച് മനസിലാക്കുന്നതിനും പരാബോളിക് മിററുകളുടെ സംയോജനം ഉപയോഗിക്കുന്നു കൂടാതെ ഹൈപ്പർബോളിക് മിററുകളും ഉപയോഗിക്കും ഇതൊരു ദൂരദർശിനിയാണ് ഒരു വശത്ത് നിങ്ങൾക്ക് ഒരു പരാബോള ഉണ്ടാകും അതിനാൽ ഈ കിരണങ്ങളെല്ലാം ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും അതിൽ നിന്ന് ഒരു പോയിന്റിൽ ഹൈപ്പർബോളിക് മിറർ ഉപയോഗിക്കും വീണ്ടും ഇത് മറ്റേതെങ്കിലും ഘട്ടത്തിൽ ഫോക്കസ് ചെയ്യുന്നതിനാൽ അത് വർദ്ധിക്കുകയും അല്ലെങ്കിൽ നമുക്ക് ഒരു വിശാലമായ ചിത്രം ലഭിക്കും അതിനാൽ ഇടയ്ക്കിടെ അവർ ഈ പരാബോള ഹൈപ്പർബോള കോമ്പിനേഷനുകളും ഉപയോഗിക്കുന്നു ചിപ്സുകൾ പോലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് പോലും പ്രത്യേകിച്ച് നമ്മൾ പ്രിംഗിൾസ് എന്ന് വിളിക്കുന്ന ബ്രാൻഡ് നാമം ആ കർവിന്റെ ആകൃതി സാധാരണയായി ഒരു ഹൈപ്പർബോളിക് കർവ് ആണ് നമ്മൾ ഗണിതശാസ്ത്ര തലത്തിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ ഒരു സർക്കിളിന് അതിന്റെ കേന്ദ്രം എവിടെയാണെന്നതിനെ അടിസ്ഥാനമാക്കി ഒരു ഫംഗ്ഷണൽ ഫോം ഉണ്ട് അത് h k സ്ഥാനത്ത് സ്ഥിതിചെയ്യുന്നു ഉദാഹരണത്തിന് ഇതാണ് കോർഡിനേറ്റ് അക്ഷം ഇവിടെ x h കോർഡിനേറ്റുകൾ ഉണ്ട് ഒരു വൃത്തം വരയ്ക്കേണ്ടതുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന സമവാക്യം x h2y k2r2 ആണ് ഇത് ഒരു പരാബോളയാണെങ്കിൽ അത് ലംബ ദിശയിലാണെങ്കിൽ അത് പിന്തുടരുന്ന സമവാക്യം ax h2 ആണ് അതിനാൽ ഇത് ഈ ഒറിജിനിലൂടെ കടന്നുപോവുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന സമവാക്യം yx2 ആണ് ചിലപ്പോൾ yx or xy2 സമവാക്യം ഉള്ള പരാബോളകളുണ്ട് മൂന്നാമത്തേത് ഒരു അണ്ഡവൃത്തം ആണ് അതിന്റെ ഗണിതശാസ്ത്ര നിർവചനം x h2a2y k2b21 ആണ് നാലാമത്തേത് ഒരു ഹൈപ്പർബോളയാണ് അതിന്റെ ഗണിതശാസ്ത്ര നിർവചനം x h2a2 y k2b21 ആണ് ഈ ഹൈപ്പർബോളയുടെയും അണ്ഡവൃത്തത്തിന്റെയും നിർമ്മാണം നമ്മൾ പഠിക്കും ഹൈപ്പർബോളയ്ക്ക് എല്ലായ്പ്പോഴും രണ്ട് ഡിറക്ടറിസുകൾ ഉണ്ടായിരിക്കും അതിനാൽ അടുത്ത ക്ലാസിൽ ആ കർവിലെ പോയിന്റിൽ നിന്നും ഡയറക്ട്രിക്സിലേക്കുള്ള ഫോക്കൽ പോയിന്റും ഈ ഫോക്കൽ പോയിന്റിൽ നിന്നുള്ള ദൂരം തമ്മിലുള്ള ബന്ധം നമ്മൾ കാണും